ഒരു നോൺ ലീനിയർ ടു പോർട്ട് എങ്ങനെയായിരിക്കണമെന്ന് നമുക്കറിയാം ഉയർന്ന ഗെയിൻ ലഭിക്കുന്നതിന് അതിന്റെ സ്വഭാവം അങ്ങനെയായിരിക്കണം ഈ സ്വഭാവസവിശേഷതകളോ മിക്കവാറും ഈ സ്വഭാവസവിശേഷതകളോ ഉള്ള നിരവധി ഉപകരണങ്ങൾ ഉണ്ടെന്നും നിലവിൽ ഏറ്റവും ജനപ്രിയമായ ഉപകരണമാണ് MOS ട്രാൻസിസ്റ്റർ എന്നറിയപ്പെടുന്നത് അതിനാൽ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് MOS ട്രാൻസിസ്റ്ററിന്റെ സ്വഭാവം നോക്കുകയും അത് നമുക്ക് ഉണ്ടായിരുന്ന പരിമിതികളുമായി എങ്ങനെ പൊരുത്തപ്പെടുന്നുവെന്നും നമുക്കുണ്ടായിരുന്ന പരിമിതികളിൽ നിന്ന് അത് എങ്ങനെ വ്യതിചലിക്കുന്നുവെന്നും കാണുക എന്നതാണ് ഞങ്ങൾ ഉരുത്തിരിഞ്ഞത് എന്തെല്ലാം പരിമിതികളാണ് ഇപ്പോൾ ഒരു ഉപകരണവും ഇവയെ കൃത്യമായി തൃപ്തിപ്പെടുത്തുന്നില്ല അവ വളരെ അടുത്ത് വരുന്നു കൂടാതെ ആംപ്ലിഫയറുകളും എല്ലാത്തരം ഇലക്ട്രോണിക് ഉപകരണങ്ങളും തിരിച്ചറിയാൻ ഞങ്ങൾ അവ ഉപയോഗിക്കുന്നു ഇപ്പോൾ മുൻകാലങ്ങളിൽ കൂടുതൽ പ്രചാരമുള്ള മറ്റ് ഉപകരണങ്ങളും ഉണ്ടായിരുന്നു അവ ഇപ്പോൾ MOSFET അസാധുവാക്കിയിരിക്കുന്നു ഭാവിയിൽ ഉപകരണങ്ങൾ ഉണ്ടാകും പിന്നീടുള്ള പാഠങ്ങളിലൊന്ന് ഞങ്ങൾ ആ സ്വഭാവവിശേഷങ്ങൾ വേഗത്തിൽ നോക്കും എന്നാൽ ഇപ്പോൾ ഞങ്ങൾ MOS ട്രാൻസിസ്റ്ററിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും പല തരത്തിലുള്ള MOS ട്രാൻസിസ്റ്ററുകളുണ്ട് ഞങ്ങൾ ഇപ്പോൾ ഒരു പ്രത്യേക ഇനം നോക്കും MOS എന്നത് മെറ്റൽ ഓക്സൈഡ് സെമികണ്ടക്റ്ററിനെ സൂചിപ്പിക്കുന്നു ഇപ്പോൾ യഥാർത്ഥത്തിൽ MOS ട്രാൻസിസ്റ്റർ മെറ്റൽ ഓക്സൈഡിന്റെയും അർദ്ധചാലകത്തിന്റെയും പാളികൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് ഇപ്പോൾ അത് ഇനി ലോഹമായിരിക്കില്ല പക്ഷേ ഞങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല ഈ ഉപകരണങ്ങളുടെ I V സവിശേഷതകളാണ് ഞങ്ങൾക്ക് പ്രധാനം നിങ്ങൾ ഡിവൈസ് ഫിസിക്സിൽ കോഴ്സുകൾ എടുക്കുകയാണെങ്കിൽ ഒരു MOS ട്രാൻസിസ്റ്ററിന്റെ ആന്തരിക വിശദാംശങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പോൾ നമ്മൾ പറഞ്ഞത് നമുക്ക് ഒരു നോൺ ലീനിയർ ടു പോർട്ട് ഉണ്ടെന്നെന്നാണ് ഇത് പോർട്ട് ഒന്ന് ഇത് പോർട്ട് രണ്ട് ഒരു MOS ട്രാൻസിസ്റ്ററിൽ ഈ ചിത്രവുമായി പൊരുത്തപ്പെടുന്നു തീർച്ചയായും ഒരു ചിഹ്നത്തിനായി ഞങ്ങൾ ഒരു ദീർഘചതുരം ഉപയോഗിക്കുന്നില്ല ഇതുപോലെ മാറുന്ന MOS ട്രാൻസിസ്റ്ററിനായി ഞങ്ങൾ സാധാരണയായി ഉപയോഗിക്കുന്നതാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഉപകരണ ഫിസിക്സ് കോഴ്സിൽ നിങ്ങൾ കണ്ടെത്തിയേക്കാവുന്ന ഈ കാര്യങ്ങളുടെ എല്ലാ വിശദാംശങ്ങളും വീണ്ടും കാണാം എന്നാൽ ഞങ്ങൾക്ക് മൂന്ന് ടെർമിനലുകൾ ഉണ്ട് ഇത് സാധാരണയായി ഇതുപോലെയാണ് വരയ്ക്കുന്നത് ഇത് പോർട്ട് ഒന്ന് ഇത് പോർട്ട് രണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും വയറുകളുടെ ഓറിയന്റേഷൻ ഒഴികെ ഇത് കൃത്യമായി ഇതുമായി പൊരുത്തപ്പെടുന്നു ഇത് കൃത്യമായി സമാനമാണ് അതിനാൽ ഇതാണ് പൊതു ടെർമിനൽ പോർട്ട് രണ്ടിന്റെ ടെർമിനൽ ഇതാണ് പോർട്ട് ഒന്നിന്റെ ടെർമിനൽ ഇതാണ് കോമൺ ടെർമിനലിന് അതും മറ്റേ ടെർമിനലും തമ്മിൽ വേർതിരിച്ചറിയാൻ ഇതുപോലൊരു അമ്പടയാളം ഉണ്ടെന്നും നിങ്ങൾ കാണുന്നു ഇതുപോലെയുള്ള പൊതുവായ പദങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ അവയെ ഒന്ന് രണ്ട് പൊതുവായത് എന്ന് വിളിക്കില്ല എന്നത് തീർച്ചയാണ് ഒരു MOS ട്രാൻസിസ്റ്ററിൽ ഇൻപുട്ട് പോർട്ടിനുള്ള ഈ ടെർമിനൽ ഇത് ഗേറ്റ് എന്നറിയപ്പെടുന്നു ഔട്ട്പുട്ട് പോർട്ടിനുള്ള ടെർമിനൽ ഇത് ഡ്രയിൻ എന്നറിയപ്പെടുന്നു ഒടുവിൽ കോമൺ പോർട്ടിനുള്ള ടെർമിനൽ ഇത് സോഴ്സ് എന്നറിയപ്പെടുന്നു ഈ മൂന്ന് ടെർമിനലുകളെ സൂചിപ്പിക്കാൻ സാധാരണയായി നിങ്ങൾ അക്ഷരം G അക്ഷരം D അക്ഷരം S എന്നിവ ഉപയോഗിക്കുന്നു തീർച്ചയായും ഞങ്ങൾ ടെർമിനലുകൾക്ക് പേരിട്ടിരിക്കുന്നതിനാൽ വോൾട്ടേജുകളും വൈദ്യുതധാരകളും സമാനമായ രീതിയിൽ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ വോൾട്ടേജ് V1 എന്നത് ഗേറ്റും സോഴ്സും തമ്മിലുള്ള വോൾട്ടേജായ വോൾട്ടേജ് VGS ആണ് വോൾട്ടേജും സോഴ്സും തമ്മിലുള്ള വോൾട്ടേജായ VDS ആണ് വോൾട്ടേജ് V2 അതുപോലെ ഈ കറന്റ് I2 ID ആണ് ഡ്രെയിൻ കറന്റ് ഈ കറൻറ്റിലെ I1 IG അല്ലെങ്കിൽ ഗേറ്റ് കറന്റ് ആണ് അതിനാൽ ഇതുവരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല രണ്ട് പോർട്ടിനായി ഞാൻ മറ്റൊരു ചിഹ്നം വരച്ചു കൂടാതെ ടെർമിനലുകൾക്ക് വ്യത്യസ്തമായി പേരിട്ടു തീർച്ചയായും നാമകരണം ഒരു യഥാർത്ഥ ഉപകരണവുമായി പൊരുത്തപ്പെടുന്നു അത് MOS ട്രാൻസിസ്റ്റർ ആണ് അതിനാൽ നമ്മൾ ഇപ്പോൾ നോക്കുന്നത് MOS ട്രാൻസിസ്റ്ററിന്റെ സ്വഭാവസവിശേഷതകളെക്കുറിച്ചും നമുക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന അനുയോജ്യമായ ഉയർന്ന നേട്ടമുള്ള ഉപകരണവുമായി അവ എങ്ങനെ പൊരുത്തപ്പെടുന്നുവെന്നും കാണുക അതിനാൽ വീണ്ടും ഞാൻ ചിഹ്നവും നൊട്ടേഷനും ആവർത്തിക്കട്ടെ ഇതാണ് സോഴ്സ് S ഡ്രെയിൻ D ഗേറ്റ് G ഞങ്ങൾക്ക് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് VGS ഗേറ്റ് കറന്റ് IG ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് VDS ഡ്രെയിൻ കറന്റ് ID എന്നിവയുണ്ട് ഞങ്ങൾ V1 V2 പോലുള്ള പൊതുവായ പദങ്ങൾ ഉപയോഗിക്കുന്നില്ല ടെർമിനലുകളുടെ യഥാർത്ഥ നാമകരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഞങ്ങൾ ഉപയോഗിക്കും ഇപ്പോൾ ചെറിയ സിഗ്നൽ സ്വഭാവസവിശേഷതകൾക്കായി ഞങ്ങൾ എന്താണ് ആഗ്രഹിച്ചത് y11 0 y12 0 y21 വളരെ വലുതായിരിക്കണം കൂടാതെ y22 0 ഇപ്പോൾ ഇവിടെ y11 ഉം y12 ഉം പൂജ്യമായതിനാൽ I1 അല്ലെങ്കിൽ VGS VDS എന്നിവയിൽ നിന്ന് സ്വതന്ത്രമായ കറൻറ്റിലെ IG സ്ഥിരമായിരിക്കണം നിങ്ങൾക്ക് ഇത് മുമ്പത്തെ കൺവെൻഷനുമായി ബന്ധപ്പെടുത്താൻ കഴിയുമെന്ന് കാണിക്കൂ ഞാൻ ഇത് I1 V1 V2 എന്നിങ്ങനെ കാണിക്കും പക്ഷേ ഞാൻ ഇത് അധികനേരം ചെയ്യില്ല MOS ട്രാൻസിസ്റ്ററുമായി ബന്ധപ്പെട്ട പദാവലി ഞങ്ങൾ ഉപയോഗിക്കും അതിനാൽ ഇത് സ്ഥിരമായിരിക്കണം ചില പ്രവർത്തന ഘട്ടങ്ങളിൽ VGS VDS എന്നിവയിൽ നിന്ന് സ്വതന്ത്രമായിരിക്കണം ഇപ്പോൾ MOS ട്രാൻസിസ്റ്റർ ഇത് പിന്തുടരുന്നുവെന്നും വാസ്തവത്തിൽ IG യഥാർത്ഥത്തിൽ പൂജ്യമാണെന്നും ഇത് VGS VDSഎന്നിവയിൽ നിന്ന് പൂർണ്ണമായും സ്വതന്ത്രമാണെന്നും ഇത് തികച്ചും അനുയോജ്യമാണ് ഇപ്പോൾ പ്രയോഗിച്ച സിഗ്നലുകൾ dc അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഫ്രീക്വൻസി ആയിരിക്കുമ്പോൾ മാത്രമേ ഇത് ശരിയാകൂ പക്ഷേ അത് ശരിയാണ് ഇപ്പോൾ ഞങ്ങൾ കുറഞ്ഞ ആവൃത്തികളിൽ ഉറച്ചുനിൽക്കും ഇത് അങ്ങനെയാണ് കാരണം MOS ട്രാൻസിസ്റ്ററിന്റെ ഗേറ്റ് ടെർമിനൽ ഒരു കപ്പാസിറ്റർ പോലെ കാണപ്പെടുന്നു ഒരു കപ്പാസിറ്ററിൽ ഡിസിയോ സ്ഥിരമായ വൈദ്യുത പ്രവാഹമോ ഉണ്ടാകില്ല അതിനാൽ ഗേറ്റ് കറന്റ് പൂജ്യമാണ് ഇത് വളരെ നല്ല ഏകദേശമാണ് ഇക്കാര്യത്തിൽ ഞങ്ങൾ ഭാഗ്യവാന്മാരാണ് ഇത് യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമുള്ള അനുയോജ്യമായ സാധനമാണ് IG എന്നത് ഒരു സ്ഥിരാങ്കം മാത്രമാണെങ്കിൽ ഞങ്ങൾ സന്തുഷ്ടരായിരുന്നു വാസ്തവത്തിൽ നമുക്ക് ഒരു സ്ഥിരാങ്കം I10 ലഭിക്കുന്നു അങ്ങനെയാണെങ്കിൽ y11 ഉം y12 ഉം പൂജ്യത്തിന് തുല്യമായിരിക്കുമെന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും ഇപ്പോൾ ID സംബന്ധിച്ചെന്ത് അതിനാൽ ID തീർച്ചയായും VGS വലത്തെ ആശ്രയിച്ചിരിക്കണം കാരണം y21 I2 V1 എന്നിവ വളരെ ശക്തമായ വ്യതിയാനം കാണിക്കും അതിനാൽ ID VGS നെ ആശ്രയിച്ചിരിക്കണം എന്നാൽ അത് VDS ൽ നിന്ന് സ്വതന്ത്രമായിരിക്കണം അതാണ് y22 പൂജ്യമാകുന്നതിന്റെ അർത്ഥം ഇതും ഏറെക്കുറെ തൃപ്തികരമാണെന്ന് ഇത് മാറുന്നു ചില ഓപ്പറേറ്റിംഗ് പോയിന്റിലെ ഡ്രെയിൻ കറന്റിനുള്ള എക്സ്പ്രഷൻ അവ എന്താണെന്ന് കാണും ഇവയാണ് ഞാൻ പിന്നീട് വിവരിക്കുന്ന ചില സ്ഥിരാങ്കങ്ങൾ അതിനാൽ ID µnCoxWL2 എന്നത് ചില പ്രവർത്തന ഘട്ടങ്ങളിലാണ് എന്നതാണ് സവിശേഷതകൾ അതിനാൽ ഈ ID VGS നെ ആശ്രയിച്ചിരിക്കുന്നു ഇത് VDS നെ ആശ്രയിക്കുന്നില്ല എന്നതാണ് അതിനാൽ ഇതും തൃപ്തികരമാണ് y22 പൂജ്യമാണ് കാരണം ഈ പദപ്രയോഗത്തിൽ VDS അടങ്ങിയിട്ടില്ലെന്ന് നിങ്ങൾ കാണുന്നു ഇപ്പോൾ y21 വലുതാണ് ഇപ്പോൾ തീർച്ചയായും y21 എന്നത് ചാലകതയാണ് അതിനാൽ ഇത് എത്ര വലുതാണ് അതിനെ സർക്യൂട്ടിലെ മറ്റെന്തെങ്കിലുമായി താരതമ്യം ചെയ്യേണ്ടതുണ്ട് ലോഡ് കണ്ടക്റ്റൻസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വലുതായിരിക്കണമെന്ന് ഇത് മാറുന്നു കൂടാതെ ഞങ്ങൾക്ക് VGS ൽ ചില ആശ്രിതരെ ലഭിക്കും VGS ൽ ID ഒരു ചതുരാകൃതിയിലുള്ള ആശ്രിതർ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അത് വളരെ ശക്തമാണെന്ന് തോന്നുന്നു അതിനാൽ MOS ട്രാൻസിസ്റ്റർ യഥാർത്ഥത്തിൽ ബില്ലിന് അനുയോജ്യമാണ് അതിന് ഇൻപുട്ട് കറന്റ് പൂജ്യമാണ് അത് യാന്ത്രികമായി y11 y12 എന്നിവ പൂജ്യമാക്കുന്നു ഇതിന് ഔട്ട്പുട്ട് സൈഡ് കറന്റും ഉണ്ട് ഡ്രെയിൻ കറന്റ് VGS നെ ആശ്രയിച്ചിരിക്കും പക്ഷേ VDS നെ ആശ്രയിക്കുന്നില്ല അതിനാൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന എല്ലാ നിയന്ത്രണങ്ങളും ഇത് തൃപ്തിപ്പെടുത്തുന്നു അതുകൊണ്ടാണ് ഇത് ഇത്രയും ജനപ്രിയമായ ആംപ്ലിഫയർ ഇപ്പോൾ സമാനമായ മറ്റൊരു ഉപകരണം ഇൻപുട്ട് കറന്റ് കൃത്യമായി പൂജ്യമല്ല വളരെ ചെറുതാണ് അത് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണ് അത് മറ്റേതെങ്കിലും പാഠത്തിൽ പരിഗണിക്കും ഇപ്പോൾ ഞങ്ങൾ MOS ട്രാൻസിസ്റ്ററിൽ ഒതുങ്ങും